എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് കളെക്കുറിച്ചുള്ള അഞ്ചാം നമ്പർ പ്രഭാഷണമാണ് അതിനാൽ കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡുകൾ എന്താണെന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും രണ്ടാമത്തേത് വെക്റ്റർ കാൽക്കുലസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ ചില വെക്റ്റർ ഫീൽഡുകൾ ഉണ്ട് അവയെ ഡൊമെയ്നിലെ ഒരു പാത്ത്ലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രലുകൾ പാത്ത്ൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ ഈ പാത്ത്ൻറെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും കൺസെർവേറ്റീവ് ഫീൽഡുകൾ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്നിവ തമ്മിലുള്ള ബന്ധവും ഈ പ്രഭാഷണത്തിൽ വിശകലനം ചെയ്യും അപ്പോൾ എന്താണ് കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഒരു സ്കെയിലർ ഫീൽഡ് f ന്റെ ഗ്രേഡിയന്റായി എഴുതാൻ കഴിയുമെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് കൺസെർവേറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു ഇതിനർത്ഥം നമുക്ക് നൽകിയ ഈ V യേ f എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ V കൺസെർവേറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു ഈ f ന്റെ അർത്ഥം മുൻ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഓർമിക്കാം അത് ∂f∂xi∂f∂yj∂f∂zk എന്നാണ് അതിനാൽ V∂f∂xi∂f∂yj∂f∂zk പോലുള്ള ഒരു ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഈ V എഴുതാൻ കഴിയുമെങ്കിൽ V കൺസെർവേറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു അതിനാൽ ഒരു വെക്റ്റർ ഫീൽഡ് V യ്ക്ക് അത്തരമൊരു സ്കേലർ ഫംഗ്ഷൻ f കണ്ടെത്താനാകുമെങ്കിൽ V എന്നത് ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കുന്നു അതിനാൽ ഈ f എന്ന ഫങ്ക്ഷന്നെ വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ അഥവാ വെക്റ്റർ ഫീൽഡ് V യുടെ പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ ഉദാഹരണത്തിന് നമുക്കിവിടെ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് F2xyx2zകൺസെർവേറ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ അതിനാൽ ഈ വെക്റ്റർ ഫീൽഡ് കൺസെർവേറ്റീവ് ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ഇപ്പോൾ f കണ്ടെത്തേണ്ടതുണ്ട് ഈ തന്നിരിക്കുന്ന F നെ ചെറിയ f ന്റെ ഗ്രേഡിയന്റായി നമുക്ക് എഴുതാം അതിനാൽ f ൻറെ ഗ്രേഡിയന്റ് നമ്മൾ ഇപ്പോൾ കണ്ടു ∂f∂xi∂f∂yj∂f∂zk x നെ സംബന്ധിച്ചുള്ള ഭാഗിക ഡെറിവേറ്റീവ് ∂f∂x2xy ഇത് ഇവിടെ ആദ്യത്തെ സമവാക്യമാണ് ∂f∂yx രണ്ടാമത്തെ സമവാക്യം∂f∂z2z മൂന്നാമത്തെ സമവാക്യം ആണ് അതിനാൽ ഇപ്പോൾ ഈ 3 സമവാക്യങ്ങളുടെ സഹായത്തോടെ Fgrad f എന്നായിട്ടുള്ള ഒരു ചെറിയ എഫ് കണ്ടെത്താനായാൽ ഈ F ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കും അതിനാൽ ഈ 3 സമവാക്യങ്ങൾ ഉള്ളതിനാൽ നമ്മൾ ആദ്യത്തേതിൽ നിന്ന് ആരംഭിക്കും ആദ്യത്തെ സമവാക്യം ∂f∂x2xy ആണ് അതിനാൽ ഇത് x മായി ഭാഗികമായി ഇന്റഗ്രേറ്റ് ചെയ്യൂകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് 2x ആണ് അതിനാൽ അതിൻറെ ഇന്റഗ്രൽ 2x22x2 ആയിരിക്കും കൂടാതെ y ഉണ്ട് അതിൻറെ ഇന്റഗ്രൽ xy ആയിരിക്കും കൂടാതെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പദവും ഉണ്ടായിരിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ f എന്നത് 3 ഘടകങ്ങളെ അതായത് x y z എന്നീ 3 വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന നിലയിൽ നമുക്ക് y z എന്നിവയുടെ ഒരു ഫങ്ക്ഷൻ ആയി എഴുതാം അതായത് x നെ ആശ്രയിക്കാത്ത ഒരു ഫങ്ക്ഷൻ ആയി hyzഎന്ന് എഴുതാം f എന്നതിന് ലഭിച്ച ഈ എക്സ്പ്രെഷനുമായി അതായത് fx2xyhyz ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യം ഉപയോഗിക്കാനാകും അതായത് ഇവിടെ നിന്ന് നമുക്ക് y യെ സംബന്ധിച്ചുള്ള f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ലഭിക്കും അതിനാൽ ഇവിടെ ∂f∂yx∂h∂y ഇത് രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന്ഉള്ള ∂f∂y യ്ക്ക് തുല്യമായിരിക്കണം അതായത് x ന് തുല്യമായിരിക്കണം അതായത് xx∂h∂y എന്നായിരിക്കണം അതിനാൽ ഈ ബന്ധം ഉള്ളതിനാൽ ഈ x റദ്ദാക്കപ്പെടും തുടർന്ന് നമ്മൾക്ക്∂h∂y0 ഉണ്ട് അതിനാൽ ഈ ബന്ധം പറയുന്നത് y ൽ നിന്ന് സ്വതന്ത്രമാണ് h അതായത് h എന്നത് y നെ ആശ്രയിക്കുന്നില്ല എങ്കിലും ഇവിടെ h എന്നത് y z എന്നിവയുടെ ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു എന്നാൽ ഈ ബന്ധം h എന്നത് y യുടെ ഫംഗ്ഷനല്ല z ന്റെ മാത്രം ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തുന്നു അതായത് fyzh അതിനാൽ f നായുള്ള ഈ എക്സ്പ്രഷൻ fx2xyh എന്ന ആയിത്തീരുന്നു അതിനാൽ ഇപ്പോൾ മുതൽ നമ്മൾ മൂന്നാമത്തെ സമവാക്യം ഉപയോഗിക്കും അതായത് ഇവിടെ നിന്ന് നമുക്ക്2z0dhdz ലഭിക്കും അതിനാൽ ഈ അവസാന സമവാക്യം ഉപയോഗിച്ച് നമ്മൾ z നെ സംബന്ധിച്ച് ഇവിടെ ഭാഗിക ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2z ന് തുല്യമാണ് എന്ന് ലഭിക്കും ആദ്യ 2 പദങ്ങളിൽ ഇവിടെ ഒരു z പദവുമില്ല അതിനാൽ അവ 0 ആയിരിക്കും മൂന്നാമത്തേതിൽ നിന്ന് നമുക്ക് dh ലഭിക്കും അതിൽ നിന്ന് നമുക്ക് hz2c എന്ന ഈ ബന്ധം ലഭിക്കുന്നു അതിനാൽ hz2c നമുക്ക് പകരം വയ്ക്കാം നമുക്ക് fx2xyz2c എന്ന് ലഭിക്കുന്നു ഇത് ആണ് സ്കാലർ പൊട്ടെൻഷ്യൽ f അതിന്റെ ഗ്രേഡിയന്റ് തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ആണ് അതായത് നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിലേക്ക് പോകും ആ ടെസ്റ്റിന്റെ സഹായത്തോടെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസെർവേറ്റീവ് മാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും അതിന് നമ്മൾക്ക് കുറച്ച് തയ്യാറെടുപ്പ് ആവശ്യമാണ് അവ നോക്കാം ഇത് സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്ൻ ആണ് സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്ൻ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു ഡൊമെയ്ൻ D കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ കണക്ട് ചെയ്ത പീസ് ആണെങ്കിൽ അതായത് 2 വ്യത്യസ്ത കഷണങ്ങളല്ല കർവിന്റെ ഒരു കഷണം മാത്രമേ ഉണ്ടാകൂ കൂടാതെ ഈ D യിലെ എല്ലാ സിമ്പിൾ ക്ലോസ്ഡ് കർവ് C യും തുടർച്ചയായി അതിൻറെ രൂപ ഭേദത്തിൽ ഉടനീളം D യിലെ തന്നെ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങാൻ കഴിയും അതിനാൽ രൂപ ഭേദത്തിൽ ഉടനീളം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കും സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്നിന്റെ നിർവചനം ഇതാണ് ഇവിടെ ഈ ഡൊമെയ്നിൽ നോക്കുക മുഴുവൻ ഡൊമെയ്നിലും ഏതെങ്കിലും സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുക്കുകയാണെങ്കിൽ ഈ ക്ലോസ്ഡ് കർവ് തുടർച്ചയായി D യിലെ ഒരു പോയിന്റിലേക്ക് ചുരുങ്ങാം നമ്മൾ D വിടുകയില്ല D വിടാതെ നമുക്ക് ഈ കർവ് ഇവിടെ ഒരു പോയിന്റിലേക്ക് ചുരുക്കാം ഡൊമെയ്ൻ D വിടാതെ തന്നെ നമുക്ക് ഈ കർവ് ഒരു പോയിന്റിലേക്ക് ചുരുക്കാൻ കഴിയും എന്നതാണ് ഉദാഹരണത്തിന് ഈ കേസിൽ സിംപ്ലി കണ്ണെക്ടഡ് അല്ലാത്ത ഈ ഡൊമെയ്ൻ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്ത് ഒരു കർവ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പോയിൻറ്ലേക്ക് ചുരുക്കാൻ കഴിയും ഒരു പ്രശ്നവുമില്ല ഒരു പോയിന്റിലേക്ക് ചുരുക്കാവുന്ന അതേ പ്രോപ്പർട്ടി ഉള്ള ഒരു കർവ് നമുക്കിവിടെ എടുക്കാം പക്ഷേ ഉദാഹരണത്തിന് നമ്മളുടെ ഡൊമെയ്ൻ D യിലും ഉള്ള ഈ ക്ലോസ്ഡ് കർവ് എടുക്കുകയാണെങ്കിൽ എന്നാൽ ഡൊമെയ്ൻ വിടാതെ നമുക്ക് ഇത് ഒരു പോയിന്റിലേക്ക് ചുരുക്കാൻ കഴിയില്ല അതാണ് ഇവിടെ പ്രശ്നം അതിനാൽ എല്ലാ ക്ലോസ്ഡ് കർവുകൾക്കും ഡൊമെയ്ൻ D യിൽ തുടരുമ്പോൾ ഒരു പോയിന്റിലേക്ക് തുടർച്ചയായി ചുരുങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് കേവലം കണക്റ്റുചെയ്ത ഡൊമെയ്നല്ല ഈ പ്രോപ്പർട്ടി ഉള്ളതിനാൽ ഇത് സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്ൻ ആണ് ഈ പദങ്ങൾ അടുത്ത സ്ലൈഡുകളിൽ ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ ഒരു കൺസെർവേറ്റീവ് ഫീൽഡിൻറെ എൻറെ ടെസ്റ്റിലേക്ക് വരും ഒരു കൺസെർവേറ്റീവ് ഫീൽഡിനെ ഒരു പൊട്ടൻഷ്യൽ ഫങ്ക്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു കൺസെർവേറ്റീവ് ഫീൽഡ് ആ സ്കെയിലറിന്റെ ഗ്രേഡിയന്റിന് തുല്യമാണ് അതിനെ പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ എന്നു വിളിക്കുന്നു ഒരു നിശ്ചിത ഫംഗ്ഷൻ ഉദാഹരണമായി ഈ FF1iF2jF3k എന്ന നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൺസെർവേറ്റീവ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ കാണും മുമ്പത്തെ ഉദാഹരണത്തിൽ ചെയ്തപോലെ പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ കണ്ടെത്താതെ തന്നെ നൽകിയ ഫീൽഡ് കൺസെർവേറ്റീവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം നമുക്ക് പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഇത് കൺസെർവേറ്റീവ് മേഖലയാണെന്ന് നമ്മൾ നിഗമനം ചെയ്യും എന്നാൽ പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ കണ്ടെത്താതെ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെന്ന് എങ്ങനെ നിഗമനം ചെയ്യാം അതിനാൽ D യുടെ എല്ലാ പോയിന്റുകളിലും F0 ആണെങ്കിൽ F എന്നത് കൺസെർവേറ്റീവ് ആണ് തിരിച്ച് F കൺസെർവേറ്റീവ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും F0ആയിരിക്കുകയും ചെയ്യും ഇത് F എന്നത് F ന്റെ കേൾ ആണ് അതിനാൽ കേൾ F പൂജ്യമാണ് എങ്കിൽ തുടർന്ന് F കൺസെർവേറ്റീവ് ആണ് F കൺസെർവേറ്റീവ് ആണെങ്കിൽ ഡൊമെയ്ൻ D യുടെ എല്ലാ പോയിന്റുകളിലും കേൾ F പൂജ്യമായിരിക്കണം അതിനാൽ F കൺസെർവേറ്റീവ് ആണെങ്കിൽ കേൾ F പൂജ്യമായിരിക്കണം ഇത് തുല്യമായ അവസ്ഥയാണ് കേൾ F 0 ന് തുല്യമാണ് എന്നതിനർത്ഥം ഈ ഭാഗിക ഡെറിവേറ്റീവ് F3∂yF2∂z F1∂zF3∂xഎന്നല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്ക് കാണാൻ കഴിയും കൂടാതെ F2∂xF1∂y എന്ന മറ്റൊരു വ്യവസ്ഥയുണ്ട് അതിനാൽ ഈ വ്യവസ്ഥകൾ തുല്യമാണ് ഈ കേൾ F കാരണം ഈ ഡിറ്റർമിനന്റിന്റെ സഹായത്തോടെ നമുക്ക് കണ്ടെത്താനാകുമെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾക്ക് δxiδyjδzk ഉണ്ട് തുടർന്ന് നമ്മൾക്ക് ഈ FF1iF2jF3k ഉണ്ട് അതിനാൽ ഇവിടെ കേൾ F 0 ന് തുല്യമാണ് എന്നതിനർത്ഥം നമ്മൾ ഇത് വിപുലീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം i ഘടകം F3∂y F2∂z ഉണ്ട് ഇതുപോലെ നമുക്ക് j യും പിന്നെ k യും ഉണ്ടാകും അതിനാൽ ഇതെല്ലാം പൂജ്യം 0 ന് തുല്യമാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് വ്യക്തിഗത പദങ്ങൾ 0 ആയിരിക്കുമ്പോൾ ഇത് സാധ്യമാണ് എന്നതാണ് അതിനാൽ ഇത് F3∂yF2∂zഎന്നാണ് ഇത് കൃത്യമായി ആദ്യത്തെ വ്യവസ്ഥയാണ് അതുപോലെ രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ വ്യവസ്ഥയും മൂന്നാമത്തെ ഘടകത്തിൽ നിന്ന് നമുക്ക് ഈ മൂന്നാമത്തെ വ്യവസ്ഥയും ലഭിക്കും അതിനാൽ കേൾ F 0 ന് എന്നതും 3 ഭാഗിക ഡെറിവേറ്റീവുകൾ 0 ന് തുല്യമായിരിക്കുമ്പോൾ ഉള്ള ഈ 3 സമവാക്യങ്ങൾ തൃപ്തമാണ് എന്നതും തുല്യ കണ്ടീഷനുകൾ ആണ് നമ്മൾ ഒരു ഹ്രസ്വ തെളിവ് കാണും എന്നാൽ ഈ രീതിയിൽ മാത്രമേ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസെർവേറ്റീവ് ആണെന്ന് നമ്മൾ അനുമാനിക്കുകയുള്ളൂ തുടർന്ന് അതിന്റെ കേൾ F പൂജ്യമാണെന്ന് നമ്മൾ തെളിയിക്കും അതിനാൽ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് നമുക്ക് FF1iF2jF3kകൺസെർവേറ്റീവ് ആണെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇത് f ന്റെ ഗ്രേഡിയന്റായി എഴുതാം അപ്പോൾ f ന്റെ ഗ്രേഡിയന്റ് എന്താണ് നമ്മൾക്ക് ഇവിടെയുണ്ട് ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ fx fy and fzഎന്നീ 3 ഘടകങ്ങളാണ് അതിനാൽ ഇതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ താരതമ്യം ചെയ്യാം കാരണം ഇത് തുല്യമാണ് അതായത് δfδxF1 δfδyF2 and δfδzF3 അതിനാൽ മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്ക് F3δy ഉണ്ട് അതിനാൽ നമ്മൾക്ക് മൂന്നാമത്തെ ഘടകത്തിന് തുല്യമായ അർത്ഥം F3δfδz ആണ് മറ്റുള്ളവയെല്ലാം തുല്യമാണ് അതിനാൽ നമുക്ക് ഇതിൽ നിന്ന് ആരംഭിക്കാം y മായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ F3∂y2f∂y∂z ലഭിക്കും അത് ഇതിനകം അവിടെ ഉണ്ടായിരുന്നു അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ ക്രമം മാറ്റാൻ കഴിയും ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ്സ് ആണെന്ന് അനുമാനിച്ചാൽ ഇത് സാധ്യമാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 2f∂y∂z2f∂z∂y വീണ്ടും എഴുതാം രണ്ടാമത്തെ ഘടകത്തിന്റെ രണ്ടാമത്തെ ഘടക തുല്യത δfδyF2 എന്നാണ് അതിനാൽ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയത് F2∂z അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് F3∂yF2∂z ആണ് അതിനാൽ ഈ മൂന്നാമത്തെ ഘടകം നോക്കിയും രണ്ടാമത്തെ സമത്വം ഉപയോഗിച്ചും നമ്മൾക്ക് ഈ വ്യവസ്ഥകളിൽ ഒന്ന് ലഭിച്ചു അതുപോലെ കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഘടകങ്ങൾക്കും ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമാണോ എന്ന് പരിശോധിക്കാനാകും ഇവിടെ ഈ നൽകിയ വെക്റ്റർ Fexcos yyz ijxyzk കൺസെർവേറ്റീവ് ആണെന്ന് ഇവിടെ കാണിക്കും അതിനാൽ ഇത് കൺസെർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ ഇപ്പോൾ വികസിപ്പിച്ച ആശയം നമ്മൾ പ്രയോഗിക്കും അതിനാൽ നമ്മൾക്ക് F1 ആദ്യ ഘടകമാണ് അത് F1excos yyz രണ്ടാമത്തെ ഘടകം F2xz exsin y ആണ് ഇവിടെ മൂന്നാമത്തെ ഘടകം F3xyz ആണ് അതിനാൽ ഒരു വഴിയാകാം നമ്മൾ ചെയ്ത മുമ്പത്തെ ഉദാഹരണത്തിലെന്നപോലെ നേരിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കാം എന്നാൽ ഇവിടെ ഈ ഫങ്ക്ഷൻ കൺസെർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ കൺസെർവേറ്റീവ് ആകുന്നതിനുള്ള പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ നേരിട്ട് കണ്ടെത്തേണ്ടതില്ല ഇവിടെ ഈ വ്യവസ്ഥകളുടെ സഹായത്തോടെ ഇത് ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെന്ന് നമുക്ക് തെളിയിക്കാനാകും അതിനാൽ ഇത് ഉള്ളതിനാൽ നമുക്ക് F3∂yഎന്ന ആദ്യ അവസ്ഥയ്ക്കായി ശ്രമിക്കാം അതിൽ ഇവിടെ നമുക്ക് F3 ഉണ്ട് നമ്മൾ ഇത് y യുമായി ബന്ധപ്പെട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് F3∂yx ലഭിക്കും ഇപ്പോൾ അത് കണ്ടീഷൻ പ്രകാരം F2∂z ന് തുല്യമായിരിക്കണം അതിനാൽ നമുക്ക് ഇവിടെ നിന്ന് F2∂z ലഭിക്കുന്നു പിന്നെ എന്ത് സംഭവിക്കും ഇവിടെ നമുക്ക് x മാത്രമേയുള്ളൂ അവിടെ z ഇല്ല അതിനാൽ നമുക്ക് x ലഭിക്കും അതിനാൽ F3∂yxF2∂z അതിനാൽ ആദ്യത്തെ വ്യവസ്ഥ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഡെറിവേറ്റീവുകളുടെ ആദ്യ സമത്വം തൃപ്തിപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് നമുക്ക് ഇവിടെ നിന്ന് F2∂x ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് xz ഉണ്ട് അതായത് ഇവിടെ നിന്ന് z നിലനിൽക്കും തുടർന്ന് exsin y അതിനാൽ x നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ex എന്നതിന്റെ ഡെറിവേറ്റീവ് exലഭിക്കും തുടർന്ന് നമുക്ക് ഈ sin y ഉണ്ട് അത് കോൺസ്റ്റൻണ്ട് ആയി കണക്കാക്കപ്പെടും തുടർന്ന് ഈ ഭാഗിക ഡെറിവേറ്റീവ് F1∂y ന് തുല്യമായിരിക്കണം അതിനാൽ ഇവിടെ നമ്മൾക്ക് F1 ഉണ്ട് അതിനാൽ y നെ സംബന്ധിച്ചുള്ള F1 ന്റെ ഭാഗിക ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു y നെ സംബന്ധിച്ചുള്ള ആദ്യ പദം ഇവിടെ നമുക്ക് z exsin y ലഭിക്കും അതിനാൽ F2∂xz exsin y യുടെ അതേ ബന്ധം നമ്മൾക്കുണ്ട് ഇത് F1∂y ഭാഗിക ഡെറിവേറ്റീവിന് തുല്യമാണ് മൂന്നാമത്തെ വ്യവസ്ഥ നമുക്ക് F1∂zF3∂x ഉണ്ട് അതിനാൽ നമ്മൾ F1∂z ഭാഗിക ഡെറിവേറ്റീവ് കണക്കുകൂട്ടുകയാണെങ്കിൽ നമുക്ക് y മാത്രമേ ലഭിക്കൂ കാരണം ആദ്യ ടേമിന് z ഇല്ല അതിനാൽ രണ്ടാമത്തെ ടേമിന് മാത്രമേ z ഉണ്ട് അത് നമുക്ക് y നൽകും കൂടാതെ ഈ F3∂x യും ഈ y യും ലഭിക്കും കാരണം ഇവിടെ ഇത് വെറും z ആകുന്നതിനാൽ 0 ആകും കാരണം നമ്മൾ x നെ സംബന്ധിച്ച് ഈ ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ടാക്കുന്നു അതിനാൽ ഈ എഫ് കൺസെർവേറ്റീവ് ആണ് കാരണം ഈ വ്യവസ്ഥകളെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ വ്യവസ്ഥകൾ തൃപ്തികരമാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ട പ്രക്രിയയിലൂടെ ഒരാൾക്ക് അത്തരമൊരു പൊട്ടൻഷ്യൽ ഫങ്ക്ഷൻ ലഭിക്കും ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന ആശയത്തിലേക്ക് വരുന്നു F എന്നത് ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കട്ടെ അത് ഒരു സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്നിൽ നിർവചിച്ചിരിക്കുന്നു കൂടാതെ D യിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ a b എന്നിവ ഉണ്ടെന്ന് കരുതുക ഇന്റഗ്രൽ ഈ പോയിന്റ് a മുതൽ ഈ b വരെ കർവ് ഇന്റഗ്രൽ ആയി പരിഗണിക്കുക അതിനാൽ ഇവിടെ ചില പാത്ത്കളുണ്ട് അവയിലൂടെ ഈ ഇന്റഗ്രൽ വിലയിരുത്തുന്നു അതിനാൽ ഇത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും തെളിയിക്കും ഈ വെക്റ്റർ ഫീൽഡ്ന് D ഡൊമെയ്നിലെ A മുതൽ B വരെയുള്ള എല്ലാ ഫീൽഡിലും ഈ ഇന്റഗ്രൽ തുല്യമാണ് തുടർന്ന് ഈ ഇന്റഗ്രലിനെ D യിലെ ഇന്റഗ്രലിന്റെ പാത്ത് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ ഒന്നുതന്നെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാത്ത് ലൂടെ കടന്നുപോകുകയാണെങ്കിൽ ഈ ഇന്റഗ്രൽ D യിലെ ഒരു പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് നമ്മൾ വിളിക്കുന്നു അടുത്ത സ്ലൈഡിൽ ഈ ആശയം അതായത് പാത്ത് സ്വാതന്ത്ര്യം കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡുമായി ബന്ധപ്പെടുത്താൻ ഉപയോഗിക്കും അതിനാൽ നമ്മൾക്ക് FF1iF2jF3k ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെന്ന് കരുതുക അതിന്റെ ഘടകങ്ങൾ സ്പേസിൽ ഒരു സിംപ്ലി കണ്ണെക്ടഡ് ഡൊമൈൻ D ലുടനീളം തുടരുന്നു തുടർന്ന് F എന്നത് കൺസെർവേറ്റീവ് ആകത്തക്കവിധം ഒരു ഫങ്ക്ഷൻ നിലനിൽക്കുന്നു അതിന്നർത്ഥം D യിലെ ഈ ഇന്റഗ്രൽ സ്വതന്ത്രമാണെങ്കിൽ മാത്രമേ F നെ ഒരു സ്കെലാർ ഫങ്ക്ഷൻ f എന്നതിന്റെ ഗ്രേഡിയന്റായി എഴുതാൻ കഴിയൂ അതിനാൽ ഈ ഇന്റഗ്രൽ D യിലെ പാത്ത് ൽ നിന്ന് സ്വതന്ത്രമാണെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അതിനർത്ഥം F കൺസെർവേറ്റീവ് ആണ് എന്നും അല്ലെങ്കിൽ തിരിച്ച് എഫ് കൺസെർവേറ്റീവ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നും ആർക്കും തെളിയിക്കാനാകും അതിനാൽ F ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു തുടർന്ന് ഇവിടെ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് ഇവിടെ നമ്മൾ ലളിതമായി തെളിയിക്കും അതിനാൽ C ഈ rtxtiytjztk എന്നതിനാൽ നൽകിയ കർവ് ആകട്ടെ ഈ സാഹചര്യത്തിൽ f എന്നത് x y z എന്നിവയുടെ ഒരു ഫംഗ്ഷൻ ആണ് കൂടാതെ x എന്നത് t യുടെ ഒരു ഫംഗ്ഷൻ ആണ് y എന്നത് t യുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് അതുപോലെ z എന്നത് t യുടെ മറ്റൊരു ഫംഗ്ഷനും ആണ് ആയതിനാൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡെറിവേറ്റീവ് dfdt∂f∂xdxdt∂f∂ydydt∂f∂zdzdt ലഭിക്കും അതിനാൽ ഈ ചെയിൻ റൂൾ ഉപയോഗിച്ച് അടുത്ത സ്ലൈഡിനൊപ്പം നമുക്ക് തുടരാം അതിനാൽ ഈ dfdt ലഭിക്കുന്നതിന് നമ്മൾക്ക് ഈ ചെയിൻ റൂൾ ഉണ്ട് അത് ∇f⋅drdtഎന്ന് എഴുതാം ഓർക്കുക ഗ്രേഡിയന്റ് f എന്നത് fxifyjfzk എന്ന് നൽകിയിരിക്കുന്നു കൂടാതെ ഈ drdt എന്നത് drdt is dxdtidydtjdzdtk ആണ് അതിനാൽ ഈ 2 വെക്റ്ററുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് ∂f∂xdxdt∂f∂ydydt∂f∂zdzdt ആയിരിക്കും അതിനാൽ ഇവിടെ ഈ ചെയിൻ റൂൾ ∇f⋅drdt എന്ന് എഴുതാം കാരണം F ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡായതിനാൽ ഈ F എന്നത് gradf ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ അതിനർത്ഥം നമ്മൾക്ക് Fdrdt ഉണ്ട് എന്നാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രൽ F dr ആയി എടുക്കുകയും ഇത് dfdt ന് തുല്യമാണെന്ന് നമ്മൾ കണ്ടാൽ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് അത് മാറ്റിസ്ഥാപിക്കാനാകും നമ്മൾക്ക് ഇവിടെ F dr തുടർന്ന് dt ഉണ്ട് എന്നാൽ ഈ Fdrdt എന്നതിന് dfdt എന്ന് എഴുതാം അതിനാൽ ഇവിടെ നമുക്ക് ഇത് dfdt ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം തുടർന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ്മില്ല നമുക്ക് ഇപ്പോൾ dt യിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും തുടർന്ന് ഇത് fb f അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന് ഉടനടി നിരീക്ഷിച്ചു അതിനർത്ഥം f എന്നത് tb യിൽ നിർണയിക്കുക അതിൽനിന്ന് f എന്നത് ta യിൽ നിർണയിച്ചത് കുറയ്ക്കുക എന്നാണ് അതായത് കർവിന്റെ 2 അറ്റത്ത് f നിർണയിക്കുക എന്നതാണ് അതിനാൽ ഈ ഡൊമെയ്നിൽ നമുക്ക് കുറച്ച് കർവുണ്ട് അത് ta മുതൽ tb വരെ വ്യത്യാസപ്പെടുന്നു അതിൻറെ സമവാക്യം നൽകിയത് r ആണ് അതു നമ്മൾ മുമ്പ് എഴുതിയതാണ് അതിനാൽ ഈ കർവ് C യിൽ ഈ ലൈൻ ഇന്റെഗ്രേലിന്റെ മൂല്യം fb f ആണ് ഇവിടെ പാത്ത് ആശ്രയത്വം ഇല്ല അതിനാൽ നമ്മൾ മറ്റേതെങ്കിലും പാത്ത് സ്വീകരിക്കുകയാണെങ്കിൽ fb f എന്ന അതേ മൂല്യം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഈ മൂല്യം പാത്ത്നെ ആശ്രയിക്കുന്നില്ല പക്ഷേ പൊതുവേ ലൈൻ ഇന്റഗ്രൽ പാത്ത്നെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പിന്നീട് കാണും F ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്ത്നെ ആശ്രയിക്കില്ല ഇതാണ് നമ്മൾ ഇവിടെ കണ്ടത് നിങ്ങളുടെ F ഒരു കൺസെർവേറ്റീവ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ മൂല്യം കേവലം fb f ആണ് കൂടാതെ ഈ f എന്നത് ഈ F ന് അനുബന്ധമായ സ്കെയിലർ ഫംഗ്ഷൻ ആണ് അതിനാൽ F എന്നത് ഈ സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റിന് തുല്യമാണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത് ആ ഡൊമെയ്നിലെ പോയിന്റ് a മുതൽ b വരെയുള്ള ഈ ഇന്റഗ്രൽൻറെ മൂല്യം fb f എന്നതിന് തുല്യമാണ് എന്നതാണ് പാത്ത് ഒരു പങ്കും വഹിക്കുന്നില്ല അതിനാൽ ഇവിടെ മറ്റൊരു നിരീക്ഷണം നമ്മൾക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്ൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് പാത്ത് C എടുത്തിട്ടുണ്ടെങ്കിൽ b യും a യും ഒന്നുതന്നെയാണ് പ്രാരംഭവും അവസാന പോയിന്റുകളും ഒന്നുതന്നെയാണ് അതിനാൽ ഈ മൂല്യം 0 ആയി മാറും അതിനാൽ ക്ലോസ്ഡ് പാത്ത് C യ്ക്ക് അതിലെ ഇന്റഗ്രൽ F⋅dr ൻറെ മൂല്യം 0 ആകും അഥവാ ഇത് ഈ പാത്ത് ഇൻഡിപെൻഡൻസ്ൻറെ മറ്റൊരു അനന്തരഫലമാണ് ഒരു വെക്റ്റർ ഫീൽഡ് ഒരു കൺസെർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്ത്നെ ആശ്രയിക്കുന്നില്ല ഇന്ന് നമ്മൾ ഇവിടെ തെളിയിച്ചു ഇത് കർവിന്റെ അവസാന പോയിന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണം തയ്യാറാക്കുന്നതിന് നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ഒരു വെക്റ്റർ ഫീൽഡ് V കൺസെർവേറ്റീവ് ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചത് V യെ ഒരു സ്കെലാർ ഫങ്ക്ഷൻ f ന്റെ ഗ്രേഡിയന്റായി എഴുതാൻ കഴിയുമെങ്കിൽ ആണെന്ന് നമ്മൾ പഠിച്ചു വെക്റ്റർ ഫീൽഡ് F കൺസെർവേറ്റീവ് ആവുന്നതിനുള്ള തത്തുല്യമായ കണ്ടീഷനുകളും ചർച്ച ചെയ്തു വെക്റ്റർ ഫീൽഡ് F കൺസെർവേറ്റീവ് ആണെങ്കിൽ ഡൊമൈൻ D യിലെ ഒരു സ്മൂത്ത് കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ പാത്ത്ൽ നിന്ന് സ്വതന്ത്രമാണ് എന്നും നമ്മൾ പഠിച്ചു അതിനാൽ നമ്മൾക്ക് സിംപ്ലി കണ്ണെക്ടഡ് ഡൊമെയ്ൻ ഉണ്ടായിരുന്നു a b എന്നീ 2 പോയിന്റുകൾക്കിടയിലുള്ള ഏത് ഭാഗവും എടുക്കുന്നു ഇന്റഗ്രലിന്റെ മൂല്യം ഒന്നുതന്നെയായിരിക്കും നമ്മൾ കണ്ട മൂന്നാമത്തെ പരിണത ഫലം നമ്മൾ ഒരു ക്ലോസ്ഡ് കർവിനെകുറിച്ച് സംസാരിക്കുമ്പോൾ D യിലെ ഓരോ ക്ലോസ് കർവിനും മൂല്യം 0 ആയിരിക്കും അത് നമ്മൾ കണ്ട ഒരു അനന്തരഫലമാണ് കാരണം ഈ ഇന്റഗ്രൽ അവസാന പോയിന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അവ ഒന്നുതന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഇന്റഗ്രൽ 0 ആയിത്തീരും ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി